ഈ ആഴ്ചയിലേക്കുള്ള ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ അവസാന ഉദാഹരണത്തിനായി ഇപ്പോൾ നമ്മൾ മെട്രിക്സുകളുടെ ശ്രേണി കാര്യക്ഷമമായി ഗുണിക്കുന്നതിന്റെ പ്രശ്നം നോക്കുന്നു A B എന്നീ രണ്ട് മെട്രിക്സുകൾ ഗുണിക്കാൻ നിങ്ങൾക്കറിയാം നമുക്ക് അനുയോജ്യമായ അളവുകൾ ആവശ്യമാണ് അതിനാൽ നമുക്ക് A B എന്നിവ ഉണ്ടെങ്കിൽ A യിലെ നിരകളുടെ എണ്ണം B യിലെ വരികളുടെ എണ്ണവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് നമുക്ക് m തവണ n മാട്രിക്സ് A ഉണ്ട് n തവണ p മാട്രിക്സ് B ഉണ്ട് അവസാന മാട്രിക്സ് നിങ്ങളുടെ തവണ m തവണ p ആയിരിക്കും A യുടെ അതേ വരികളുടെ എണ്ണം B യുടെ അതേ നിരകൾ ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾ ആ ഉൽപ്പന്നം കണക്കുകൂട്ടുന്ന രീതിയും A B അതിനാൽ എനിക്ക് A B യിലെ i j എൻട്രി വേണമെങ്കിൽ ഞാൻ A യിലെ വരി എടുക്കും ചിലത് j കോളം B ഉപയോഗിച്ച് ഗുണിച്ചിരിക്കുന്നു ഞാൻ ഇവിടെ ആദ്യത്തെ എൻട്രി എടുക്കും അവിടെ ആദ്യത്തെ എൻട്രി അതിനാൽ ഞാൻ A i 1 B 1 j എന്നിവ എടുത്ത് അവയെ A i 2 B 2 j കൊണ്ട് ഗുണിക്കും ഒടുവിൽ A i n b n j ഗുണനം അവയെല്ലാം ചേർക്കുക ഇത് ഓർഡർ n ഘട്ടങ്ങൾ എടുക്കുന്നു കാരണം ഞാൻ ഓർഡർ n ജോഡി തിരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുകയും അവയെല്ലാം ചേർക്കുകയും ചെയ്യുന്നു എനിക്ക് അവസാനമായി m തവണ p എൻട്രികൾ കണക്കുകൂട്ടണം ഓരോ എൻട്രിക്കും അവിടെ ഒരു ലീനിയർ ഓർഡർ n തുക ആവശ്യമാണ് അടിസ്ഥാന ഗണിത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് മെട്രിക്സുകളെ ഗുണിക്കുന്നതിനുള്ള ആകെ ചെലവ് m തവണ n തവണ ക്രമത്തിലാണ് അതിനാൽ പ്രശ്നത്തിന് ആവശ്യമായ അടിസ്ഥാന വസ്തുത ഇതാണ് മൂന്നോ അതിലധികമോ മെട്രിക്സുകളുടെ ഗുണിതം കണക്കുകൂട്ടി രണ്ട് മെട്രിക്സുകളുടെ ഗുണിതം കണക്കുകൂട്ടുന്നില്ല എന്നതാണ് ഇപ്പോൾ ആശങ്ക അതിനാൽ എ ബി സി എന്നീ മൂന്ന് മെട്രിക്സുകളെ ഗുണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഒരു സമയത്ത് എനിക്ക് 2 ആവശ്യമുണ്ട് എനിക്ക് ബി തവണ സി ചെയ്യാൻ കഴിയും തുടർന്ന് ബിയിൽ നിന്ന് എ കൊണ്ട് ഗുണിക്കാം മാട്രിക്സ് ഗുണനം കമ്മ്യൂട്ടേറ്റീവ് അല്ല നമുക്ക് ഇത് പൊതുവായി ഇല്ല അതിനാൽ ഓർഡർ ഒന്നുതന്നെയാണെന്നത് പ്രധാനമാണ് എന്നാൽ ഏത് ശ്രേണിയിലാണ് ഞാൻ ഈ ലളിതവൽക്കരണം നടത്തുന്നത് എന്നത് പ്രശ്നമല്ല ഇത് അസ്സോസിയേറ്റീവ് ആണ് എനിക്ക് ഒരു തവണ ബി അതിനുശേഷം സി അല്ലെങ്കിൽ എ ടൈംസ് സി എന്നിങ്ങനെ ബ്രാക്കറ്റ് ചെയ്യാൻ കഴിയും രണ്ട് വഴികളിലൂടെയും എനിക്ക് രണ്ട് മാട്രിക്സ് ഗുണിതങ്ങൾ ചെയ്യാൻ കഴിയും ഒപ്പം അസോസിയേറ്റീവ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഉത്തരം മാറില്ല അന്തിമ ഗുണിതം അതേപടി തുടരും പക്ഷേ നമുക്ക് താൽപ്പര്യമുണർത്തുന്നതെന്തെന്നാൽ ഉത്തരം ഏത് രീതിയിലാണെന്നതിനെ ആശ്രയിച്ച് ഉത്തരം കണക്കുകൂട്ടുന്നതിന്റെ സങ്കീർണ്ണത മാറാം ഞാൻ അത് എ ടൈംസ് ബി പിന്തുടർന്ന് സി പിന്തുടരുകയോ ആദ്യം ബി ടൈംസ് സിയിൽ ചെയ്യുകയോ ചെയ്തിട്ട് എ ഗുണിച്ചേക്കാം നമുക്ക് വളരെ നിസ്സാരമായ ഒരു ഉദാഹരണം നോക്കാം എനിക്ക് ഇത്തരത്തിലുള്ള മൂന്ന് മെട്രിക്സുകളുണ്ട് എ 1 ആണ് ഇവ ഇതുപോലെ കാണപ്പെടുന്ന മാട്രിക്സാണ് ഇതിന് 1 വരിയും 100 നിരകളും ഉണ്ട് ബി ഒരു മാട്രിക്സാണ് ഇത് 100 വരികളും 1 നിരയും സി വീണ്ടും ഒരു മാട്രിക്സ് അതിനാൽ ഇത് ഇതുപോലെ തോന്നുന്നു ഇത് എന്റെ എ ഇത് എന്റെ ബി ഇത് എന്റെ സി അതിനാൽ ഇപ്പോൾ ഞാൻ ആദ്യം ബി തവണ സി ചെയ്യുന്നുവെന്ന് കരുതുക ഞാൻ ബി തവണ സി ചെയ്താൽ ഈ 100 ൽ സംഭവിക്കുന്നത് ഇപ്പോൾ പൊട്ടിത്തെറിക്കും എനിക്ക് ലഭിക്കുനത് 100 മുതൽ 100 വരെയുള്ള ബിഗ് മാട്രിക്സ് ആണ് കാരണം എനിക്ക് ഇവിടെ 100 വരികളും അവിടെ 100 നിരകളുമുണ്ട് അതിനാൽ അവസാന കാര്യം ബിയിലെ വരികളുടെ എണ്ണവും സിയിലെ നിരകളുടെ എണ്ണവും ആയിരിക്കും ബി ടൈംസ് സി മാട്രിക്സ് യഥാർത്ഥത്തിൽ 100 മുതൽ 100 വരെയാണ് എത്ര ഘട്ടങ്ങൾ ഇത് എടുക്കും അത് m ൽ നിന്ന്n ൽ നിന്ന് p ലേക്ക് എടുക്കുന്നു അത് 100 മുതൽ 1 വരെ 100 ആണ് ഇത് 10000 ഘട്ടങ്ങളാണ് ഇപ്പോൾ എനിക്ക് 1 മുതൽ 100 വരെയും ബി 100 മുതൽ 100 വരെയുമാണ് ഉള്ളത് ഞാൻ വീണ്ടും 100 1 മുതൽ 100 വരെ എന്തെങ്കിലും നിർമ്മിക്കാൻ പോകുന്നു നിങ്ങൾ 1 മുതൽ 100 വരെ 100 എടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ m ൽ നിന്ന് n ൽ നിന്ന് p ലേക്ക് മറ്റൊരു പദത്തിനെ വിളിക്കുന്നു ഈ പ്രത്യേക ശ്രേണിക്ക് 20000 ഘട്ടങ്ങൾ ആവശ്യമാണ് മറുവശത്ത് മറ്റൊരു വഴി പ്രവചിക്കുക ഞാൻ ആദ്യം ഈ ഗുണിതം കണക്കുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ 1 ബൈ 1 മാട്രിക്സിലേക്ക് ചുരുക്കി ഇവിടെ വരികളുടെ എണ്ണം 1 ഉം നിരകളുടെ എണ്ണം 1 ഉം ആണ് അതിനാൽ എ ബി 1 ബൈ 1 മാട്രിക്സാണ് ഇത് കണക്കാക്കാൻ 100 ഘട്ടങ്ങൾ മാത്രമേ എടുക്കൂ ഇപ്പോൾ വീണ്ടും എനിക്ക് 100 മുതൽ 1 വരെ മാട്രിക്സുകൾ ഉണ്ട് വീണ്ടും 100 ഘട്ടങ്ങൾ മാത്രമേ എടുക്കൂ അതിനാൽ ഇത് 200 ഘട്ടങ്ങൾ മാത്രമേ എടുക്കൂ നിങ്ങൾ ആണോ ബ്രാക്കറ്റുചെയ്തത് എ ബി അതിനുശേഷം സി അല്ലെങ്കിൽ എ തുടർന്ന് ബി സി എന്നതിനെ ആശ്രയിച്ച് സങ്കീർണ്ണതയിൽ നാടകീയമായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പൊതുവേ നമുക്ക് അത്തരം മെട്രിക്സുകളുടെ ഒരു ശ്രേണി ഉണ്ട് അത് ശരിയാണ് അതിനാൽ M 1 M 2 മുതൽ M n വരെ അവയുടെ അളവുകൾ r 1 C 1 r 2 C 2 എന്നിങ്ങനെ rn C n വരെ ആയിരിക്കും നിരകളുടെയും വരികളുടെയും എണ്ണം അളവുകൾ നമുക്ക് നൽകും അതുവഴി നമുക്ക് ഗുണിക്കാം തീർച്ചയായും എൻട്രികൾ ഊഹിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വിവേകപൂർണ്ണമായ ഗുണന സങ്കലന പ്രവർത്തനങ്ങളാൽ സംയോജിപ്പിക്കാൻ കഴിയും രണ്ട് മെട്രിക്സുകൾ ഗുണിക്കാൻ നമുക്ക് കഴിയേണ്ടത് അളവുകൾ പൊരുത്തപ്പെടണം എന്നതാണ് ഓരോ മാട്രിക്സിന്റെയും നിര നിരകളുടെ എണ്ണം അടുത്ത മാട്രിക്സിലെ വരികളുടെ എണ്ണത്തിന് തുല്യമാണെന്ന് ഉറപ്പാക്കുക ഗുണിതം നന്നായി നിർവചിക്കപ്പെടുന്നു ഈ ഗുണിതം കണക്കുകൂട്ടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം രണ്ട് മെട്രിക്സുകളെ ഒന്നിച്ച് ഗുണിക്കുന്ന അടിസ്ഥാന പ്രവർത്തനങ്ങളുടെ ക്രമം എന്താണ് അവിടെ ഏറ്റവും കുറഞ്ഞ ചിലവ് ലഭിക്കുന്നതിന് നമ്മൾ നിർവ്വഹിക്കേണ്ടതുണ്ട് ഇത് ബ്രാക്കറ്റിന്റെ ഒപ്റ്റിമo മാർഗം കണ്ടെത്തുന്നതിന് തുല്യമാണ് അതിനാൽ ഞാൻ ഒരു തവണ ബി തവണ സി ചെയ്തപ്പോൾ ഓർക്കുക ബ്രാക്കറ്റ് ഇതുപോലെയാക്കണോ ബ്രാക്കറ്റ് ഇതുപോലെ ഇടാം പൊതുവേ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ബി തവണ സി തവണ ഡി നൽകിയാൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എബി സിഡി ചെയ്യാം തുടർന്ന് ഗുണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സിഡി ചെയ്യാം പിന്നെ ബിസിഡി പിന്നെ എബിസിഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് എബി ചെയ്യാം പിന്നെ എബിസി പിന്നെ എബിസി ഡി അതിനാൽ നിങ്ങൾക്ക് ജോഡികളുടെ ഗുണിതം എന്നിവ ഭാഗികമായി കണക്കുകൂട്ടാൻ കഴിയും ഇത് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഭാഗത്തിലെ ഇൻഡക്റ്റീവ് ഘടനയെ തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഈ ദൈർഘ്യമേറിയ ഗുണിതം M 1 മുതൽ M n വരെ കണക്കുകൂട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ഒരു സമയം രണ്ട് മെട്രിക്സുകൾ മാത്രമേ ഗുണിക്കാൻ കഴിയൂ എന്ന് ഓർമ്മിക്കുക അവസാന ഘട്ടത്തിൽ നിങ്ങൾ രണ്ട് മാട്രിക്സും ചില രണ്ട് മെട്രിക്സുകളും ഗുണിക്കും ഇപ്പോൾ ബ്രാക്കറ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഗ്രൂപ്പുചെയ്യാൻ കഴിയും പക്ഷേ നമുക്ക് പുനർ ക്രമീകരിക്കാൻ കഴിയില്ല അതിനാൽ നമ്മൾ അവസാന ഘട്ടം നടത്തിയിരുന്നെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ടാകും നിങ്ങൾ ഇടത് നിന്ന് മിഡ്പോയിന്റിലേക്കും കുറച്ച് ഗുണിതം മിഡ്പോയിന്റിൽ നിന്ന് n വരെയും ചെയ്യുമായിരുന്നു ചില കെ യ്ക്ക് നമ്മൾ M n മുതൽ M k വരെയും M k പ്ലസ് 1 മുതൽ M n വരെയും കണക്കാക്കുമായിരുന്നു ഇതെല്ലാം ചെയ്തതിന് ശേഷം ആദ്യ ഭാഗത്ത് നമുക്ക് M 1 പോലെ വരികളും M k പോലെ നിരകളും ഉണ്ടായിരിക്കും ഇത് r 1 തവണ C k ആയിരിക്കും രണ്ടാമത്തേത് r k പ്ലസ് 1 മുതൽ C n വരെ ആയിരിക്കും കൂടാതെ C k r k പ്ലസ് 1 ന് തുല്യമാകുമെന്ന് നമുക്കറിയാം അതിനാൽ ഇവ രണ്ടും ഒരുമിച്ച് ഗുണിക്കും അവസാന ചെലവ് m ൽ നിന്ന് n ൽ നിന്ന് p ലേക്ക് പോകും അത് r 1 മുതൽ C k ൽ നിന്ന് C n ലേക്ക് ആയിരിക്കും അതിനാൽ അവസാന ഘട്ടം എത്രമാത്രം എടുക്കുമെന്ന് നമുക്കറിയാം M k ൽ ഇത് തകർന്നുവെന്ന് കരുതുക അവസാന ഗുണനം ഇതിന് വളരെയധികം കാരണമാകുന്നു ഇപ്പോൾ k ന്റെ ഈ പ്രത്യേക ചോയ്സ് ഉപയോഗിച്ച് ഇത് ചെയ്യുന്നതിനുള്ള ആകെ ചെലവ് ലഭിക്കുന്നതിന് M 1 മുതൽ M k വരെയും M k പ്ലസ് 1 മുതൽ M n വരെയും കമ്പ്യൂട്ടിംഗ് ചെലവ് നേടേണ്ടതുണ്ട് നമുക്ക് ഈ അന്തിമ സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് ഉപ പ്രശ്നങ്ങളുണ്ട് മൊത്തം ചെലവ് ആദ്യത്തെ ഉപ പ്രശ്നത്തിന്റെ വിലയായിരിക്കും എന്നിരുന്നാലും M 1 മുതൽ M k വരെ കണക്കുകൂട്ടാൻ വളരെയധികം സമയം എടുക്കും അവസാന ഘട്ടത്തിന്റെ വില ഈ രണ്ട് ഉപപ്രശ്നങ്ങളും ഗുണിച്ചതിനുശേഷം ഒരു മാട്രിക്സ് വീതം സൃഷ്ടിച്ച് ആ രണ്ട് മെട്രിക്സുകളും ഒരുമിച്ച് ഗുണിക്കുന്നു പക്ഷേ ഈ k 1 നും n നും ഇടയിലായിരിക്കാമെന്ന് പറഞ്ഞു അതിനാൽ ഏത് k നമ്മൾ തിരഞ്ഞെടുക്കണം ഈ പ്രേരണാപരമായ കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നതാണ് ഏത് കെ നല്ലതാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയില്ലെന്ന് പറയുന്നു അതിനാൽ സാധ്യമായ എല്ലാ കേസുകളും പരീക്ഷിച്ച് ഏറ്റവും മികച്ചത് എടുക്കുക ഈ സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മൊത്തം പ്രവർത്തനങ്ങളുടെ എണ്ണത്തിൽ M 1 മുതൽ M n വരെ ഗുണിക്കുന്നതിനുള്ള ചെലവ് k 1 നും n നും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ മൂല്യമായിരിക്കണം ഇത് n നെക്കാൾ കർശനമായി കുറവായിരിക്കണം കാരണം രണ്ടാം ഭാഗം n k പ്ലസ് 1 ആയിരിക്കും അതുകൊണ്ട് 1 നും n നും ഇടയിൽ അല്ലെങ്കിൽ മെട്രിക്സ് 1 മുതൽ k വരെ ഗുണിച്ചാൽ മാട്രിക്സ് k പ്ലസ് 1 മുതൽ n വരെ ഗുണിച്ച് അവസാന ഗുണനത്തിന്റെ വില ചേർക്കുന്നു ഇപ്പോൾ ഞാൻ ഇത് ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ ഒരു ഇടവേളയിൽ അത് ചില ഇന്റർമീഡിയറ്റ് പോയിന്റായ M j യിൽ വിഘടിച്ചേക്കാം ഞാൻ M k ലേക്ക് കുറച്ച് M j പ്ലസ് 1 ചേർക്കും 1 മുതൽ n വരെ അനിയന്ത്രിതമായ സെഗ്മെന്റുകൾ എന്റെ ഉപ പ്രശ്നങ്ങളായി ലഭിക്കും സ്വാഭാവിക കാര്യം M i മുതൽ M j വരെയുള്ള ഏകപക്ഷീയമായ സെഗ്മെന്റിലെ ഇൻഡക്റ്റീവ് ഘടനയെ നിർവചിക്കുക എന്നതാണ് ഇവിടെ തീർച്ചയായും i j യേക്കാൾ കുറവാണ് അതിനാൽ നടുവിലുള്ള ഏതൊരു കെ യുടെയും ഏറ്റവും കുറഞ്ഞ മൂല്യം i നും j നും ഇടയിലുള്ള k അല്ലെങ്കിൽ M i മുതൽ M k വരെ പോകുന്നു തുടർന്ന് M k പ്ലസ് 1 മുതൽ M j വരെയും അവസാന ഗുണനത്തിന്റെ വില r1 ൽ നിന്ന് C k ൽ നിന്ന് C j അതിനാൽ മുമ്പത്തെപ്പോലെ നമ്മൾ ഇൻഡെക്സ് ഉപയോഗിക്കും M 1 ന്റെ വില M 2 ന്റെ വില എഴുതുന്നതിനുപകരം പിന്നെ നമ്മൾ i j എന്ന് എഴുതുന്നതെന്തും i j യുടെ വില എന്നാൽ M i മുതൽ M j വരെ ഗുണിക്കുന്നതിനുള്ള ചെലവ് ആണ് നമുക്ക് കണക്കുകൂട്ടേണ്ട സമവാക്യത്തിന്റെ അന്തിമ ഇൻഡക്റ്റീവ് രൂപം നോക്കാം അടിസ്ഥാന കേസ് നമ്മൾ ദൈർഘ്യം 1 ന്റെ ഒരു ശ്രേണി നോക്കുമ്പോൾ ആണ് അതിനാൽ നിങ്ങൾ ഉദാഹരണത്തിന് M 1 M 2 M 3 M 4 എന്നിവയുടെ കമ്പ്യൂട്ടിംഗ് നടത്തുകയാണെങ്കിൽ അത് M 1 തവണ M 2 M 3 M 4 ആയി വിഭജിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ ബ്രേക്ക്അപ്പ് ചെയ്യുകയാണെങ്കിൽ M 1 ചെയ്യുന്നതിനുള്ള ചെലവ് ഒന്നുമല്ല കാരണം ഞാൻ 1 മുതൽ 1 വരെ കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു ഗുണനവും ചെയ്യുന്നില്ല അതിനാൽ i i യുടെ വില 0 ആണ് അല്ലാത്തപക്ഷം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആവർത്തന ഫോർമുലേഷൻ ഞാൻ ഉപയോഗിക്കുന്നു k ശ്രേണി ഫോം i നുള്ള ഏറ്റവും കുറഞ്ഞ മൂല്യം നമ്മൾ എടുക്കുന്നു പക്ഷേ i മുതൽ k വരെയുള്ള വിലയുടെ j യെക്കാൾ കർശനമായി കുറവല്ല k പ്ലസ് 1 മുതൽ j വരെയും r i തവണ C k C j തീർച്ചയായും i j ന് തുല്യമാകുമ്പോൾ മാത്രമേ നമ്മൾ ഇത് കണക്കുകൂട്ടുകയുള്ളൂ നമുക്ക് ഇൻഡെക്സ് j i നെക്കാൾ ചെറുതായിരിക്കുമ്പോൾ ഒരിക്കലും കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പരിശോധിക്കാൻ നിർദ്ദേശിക്കുന്നു കോസ്റ്റ് ii പ്ലസ് 1 പോലുള്ള എന്തെങ്കിലും ഞാൻ ചെയ്യുന്നു അതിനാൽ ഇത് എനിക്ക് എന്ത് ചെയ്യുമെന്നാണ് M i M i പ്ലസ് 1 എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കെ യ്ക്കുള്ള എന്റെ സാധ്യമായ ഒരേയൊരു മൂല്യം k i യുടെ ഇടയിലും കൂടാതെ i പ്ലസ് 1 നെക്കാൾ കുറവും ആയിരിക്കണം k എന്നതിന് സാധ്യമായ ഒരേയൊരു മൂല്യം i ആണെന്നാണ് ഇതിനർത്ഥം അതിനാൽ ഇത് M i മുതൽ M i വരെയും M i പ്ലസ് 1 മുതൽ M i പ്ലസ് 1 വരെയും വേർപെടുത്തും തുടർന്ന് ഇൻഡക്റ്റീവ് ആയി എനിക്ക് ചെലവ് 0 നൽകും തുടർന്ന് എനിക്ക് ഈ ജോഡിയിൽ നിന്ന് കൃത്യമായി വരുന്ന ഈ ജോഡിയെ ഗുണിക്കുന്നതിനുള്ള ചെലവ് നേടുo ഈ അടിസ്ഥാന കേസിൽ ഒരു പ്രശ്നവുമില്ല രണ്ട് ഇന്ടെക്സുകളും കൃത്യമായി തുല്യമാകുമ്പോൾ മാത്രമേ നമുക്ക് അടിസ്ഥാന കേസ് ആവശ്യമുള്ളൂ ഇപ്പോൾ മുമ്പത്തെപ്പോലെ ഈ മാട്രിക്സ് പൂരിപ്പിക്കാൻ നമുക്ക് കഴിയും കാരണം ഇത് ഉപയോഗിച്ചിട്ടില്ല നമുക്ക് അത് ആവശ്യമുണ്ട് അതിനാൽ ഞാൻ ഈ വഴി പോകുന്നു ആദ്യത്തെ ഇൻഡെക്സ് ഈ വഴിക്ക് പോകുന്നു രണ്ടാമത്തെ ഇൻഡെക്സ് ആ വഴിക്ക് പോകുന്നു അതിനാൽ അടിസ്ഥാനപരമായി സ്റ്റാർട്ടിംഗ് പോയിന്റിനു മുമ്പുള്ള അവസാന പോയിന്റ് എവിടെയാണെന്ന് നമ്മൾ അടിസ്ഥാനപരമായി ഒരിക്കലും നോക്കേണ്ടതില്ല നമുക്ക് സമയത്തിന്റെ മുകളിൽ മാത്രം നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ij സ്ഥാനം കണക്കുകൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് ik ആവശ്യമാണ് അതായത് ഈ വരിയിൽ M j പോലുള്ള ചെറിയ മൂല്യങ്ങൾക്കിടയിൽ നമുക്ക് jk kj ഫോമിന്റെ മൂല്യങ്ങൾ പോലെ ഈ നിരയിലെ മറ്റ് മൂല്യങ്ങളുo ആവശ്യമാണ് നമുക്ക് ചുവടെയും ഇടത്തോട്ടും സ്പെക്ട്രൽ ഡയഗണൽ മൂല്യങ്ങൾ ആവശ്യമാണ് അതിനാൽ ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം ഈ രീതിയിൽ പൂരിപ്പിക്കുക എന്നതാണ് നമ്മൾ എവിടെ പൂരിപ്പിച്ചാലും താഴെയുള്ള മൂല്യങ്ങൾ ഇതിനകം തന്നെ ഉണ്ട് മറ്റ് മൂല്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നു അതിനാൽ നമ്മൾ ഈ മാട്രിക്സ് ചുവടെ മുകളിൽ നിന്ന് പൂരിപ്പിക്കും ഡയഗണലിലൂടെയും ഇത് പൂരിപ്പിക്കാം പക്ഷേ ഇത് പ്രോഗ്രാം ചെയ്യുന്നത് വളരെ വേദനാജനകമാണ് വരിയിലൂടെയോ നിരയിലൂടെയോ ഇത് ചെയ്യുന്നതാണ് നല്ലത് അതിനാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ആരംഭിക്കാനും കഴിയും നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാനും കഴിയും അതിനുശേഷം നിങ്ങൾ ആരംഭിക്കുന്നിടത്ത് നിങ്ങൾക്ക് ചുവടെയുള്ള മൂല്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഡയഗണലിലും വലത്തോട്ടോ മുകളിലോ ആരംഭിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ മുകളിൽ ഇടത് നിന്ന് ആരംഭിച്ച് ഡയഗണലിലും ഓരോ ഡയഗണലിലും താഴേക്ക് പ്രവർത്തിക്കുക ഓരോ നിരയും നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ചുവടെ വലതുഭാഗത്ത് ആരംഭിച്ച് ഡയഗണലും ഓരോ വരിയും ഇടത്തുനിന്ന് വലത്തോട്ട് പ്രവർത്തിക്കുന്നു അതിനാൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യും അതിനായി ഒരു സ്യുടോ കോഡ് ഇവിടെയുണ്ട് നമ്മൾ ആദ്യം ഡയഗണലിനെ 0 ആയി ആരംഭിക്കുന്നു ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ചെയ്യുന്നു നമ്മൾ എല്ലാ നിരകളും ആരംഭിക്കുമെന്ന് പറഞ്ഞു സമയം കാണുക 1315 അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു നിരയിലായിരിക്കണം കോളം 1 നമ്മൾ ചെയ്യേണ്ടതില്ല കാരണം കോളം 2 മുതൽ ആരംഭിച്ച ഡയഗണലാണ് അതിനാൽ 2 മുതൽ n വരെ തുടർന്ന് ഡയഗണൽ മുതൽ മുകളിലെ വരി വരെ ആരംഭിക്കുന്ന ഓരോ വരിയിലും നമ്മൾ ഇപ്പോൾ ഈ മിനിമം കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഫിൽട്ടർ ചെയ്യേണ്ട മൂല്യം അനന്തമാണെന്ന് ആദ്യം അനുമാനിക്കുന്നു ഇപ്പോൾ അനന്തതയ്ക്ക് എല്ലാ അളവുകളുടെയും പ്ലസ് 1 ന്റെ ഗുണനം ആവശ്യമായി വരും കാരണം റഫർ സമയം 1342 ചെലവ് കവിയുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു വലിയ മൂല്യം തിരഞ്ഞെടുക്കാനാകും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് k യുടെ ഓരോ മൂല്യവും നിങ്ങൾ പരിശോധിക്കുകയാണ് ആ ഇൻഡക്റ്റീവ് കാര്യം നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ r മുതൽ k വരെയും k പ്ലസ് 1 മുതൽ C വരെയും പിന്നീട് r തവണ C k തവണ സി സിയിലേക്കും നോക്കുന്നു നിങ്ങൾ ഈ പ്രത്യേക മൂല്യത്തിലേക്ക് നോക്കുന്നത് ഇൻഡക്റ്റീവ് കാര്യമാണ് എന്നിട്ട് നിങ്ങൾ ഇതുവരെ കണ്ട മൂല്യത്തേക്കാൾ ചെറുതാണെങ്കിൽ ഇത് അടിസ്ഥാനപരമായി അനന്തതയിലേക്ക് സജ്ജമാക്കി ഓരോ തവണയും നോക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ k ന് മുകളിലുള്ള മിനിറ്റ് കണക്കാക്കുന്നു അതിനാൽ ഇത് ഇൻഡക്റ്റീവ് വസ്തുവിന്റെ ആവർത്തനത്തിന്റെ നേരിട്ടുള്ള നടപ്പാക്കൽ മാത്രമാണ് മാത്രമല്ല ഇത് ആശ്രിതത്വത്തെ മാനിക്കുന്ന അല്ലെങ്കിൽ മുമ്പ് ഇൻപുട്ട് നൽകുന്ന രീതിയിൽ ഉപ പ്രശ്നങ്ങൾ കണക്കാക്കുകയാണ് ഒരു ഓർഡർ n സ്ക്വയർ ടേബിൾ നമ്മൾ പൂരിപ്പിക്കുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയോ എഡിറ്റ് ഡിസ്റ്റ്ടെൻസൊ നോക്കിയപ്പോൾ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിന്റെ സങ്കീർണ്ണത കൃത്യമായി ടേബിളിന്റെ വലുപ്പത്തിന്റെ സങ്കീർണ്ണതയാണെന്ന് നമ്മൾപറഞ്ഞു നമുക്ക് ഒരു M തവണ M ടേബിൾ ഉണ്ടായിരുന്നു അത് പൂരിപ്പിക്കുന്നതിന് M തവണ M സമയമെടുക്കും കാരണം ഈ രണ്ട് പ്രശ്നങ്ങളിലും നമ്മൾ ഓരോ എൻട്രിയും കൃത്യമായി മൂന്ന് അയൽക്കാരെ നോക്കുന്നു നമുക്ക് നിരന്തരമായ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ എൻട്രി പൂരിപ്പിക്കുന്നതിന് ഞാൻ കുറച്ച് അകലെ ഡയഗണൽ നിർത്തുമ്പോൾ ഈ വരിയും ഈ നിരകളും സ്കാൻ ചെയ്യേണ്ടതുണ്ട് അതിനാൽ എന്റെ മാട്രിക്സിലെ ഒരു എൻട്രി പൂരിപ്പിക്കുന്നതിന് എടുക്കുന്ന സമയം ലീനിയെർ ആയിരിക്കും അങ്ങേയറ്റത്തെ സാഹചര്യത്തിൽ ഞാൻ ഡയഗണലിൽ വളരെ ശക്തനാണെങ്കിൽ ആ എൻട്രി പൂരിപ്പിക്കുന്നതിന് ഓർഡർ സമയം ചെലവഴിക്കുന്നു മാട്രിക്സിന്റെ ഓരോ ഇന്റർമീഡിയറ്റ് മൂല്യത്തിനും n ഇന്റർമീഡിയറ്റ് നോക്കേണ്ടതുണ്ട് ഓരോ സ്ഥാനത്തിനും n ഇന്റർമീഡിയറ്റ് മൂല്യം നോക്കേണ്ടതുണ്ട് ഈ ടേബിൾ വലുപ്പം n ചതുരമാണെങ്കിലും ടേബിൾ പൂരിപ്പിക്കുന്നതിന്റെ യഥാർത്ഥ സങ്കീർണ്ണത വലുപ്പം n ക്യൂബാണ് അതിനാലാണ് ഇത് രസകരമായ ഒരു പ്രശ്നം ആയത് കാരണം ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് അൽഗോരിത്തിന്റെ സങ്കീർണ്ണത നിങ്ങൾക്ക് നേരിട്ട് നിഗമനം ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ടേബിളിന്റെ വലുപ്പം പറയുന്നു കാരണം ഇത് ടേബിളിലെ ഓരോ എൻട്രിയും അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട ശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു